ഡ്രെയിൻ ഫീഡ്ബാക്ക് ബയാസിംഗ് ഉപയോഗിച്ച് കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ ഗെയിൻ നമ്മൾ വിശകലനം ചെയ്തു കൂടാതെ ഗേറ്റ് ബയസ് റെസിസ്റ്റർ RG ക്ക് വേണ്ടി കൺസ്ട്രെയിൻറ്സ് കണ്ടെത്തുകയും ചെയ്തു കപ്ലിങ് കപ്പാസിറ്ററുകൾ C1 C2 എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ ഇത് തന്നെ ചെയ്യും ഇപ്പോൾ ഡ്രെയിൻ ഫീഡ്ബാക്ക് ബയസ് ഉള്ള പൂർണ്ണ സർക്യൂട്ട് ആണ് ഇടതുവശത്തുള്ളത് ഇൻപുട്ട് സോഴ്സ് C1 മായി കണക്റ്റുചെയ്തിരിക്കുന്നു ലോഡ് C2 വഴി കപ്പിൾ ചെയ്തിരിക്കുന്നു സ്മോൾ സിഗ്നൽ ഇക്യുവാലന്റ് ആണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ഞാൻ ആകെ ചെയ്തത് I0 ഓപ്പൺ സർക്യൂട്ട് ആക്കി VDD ഷോർട്ട് സർക്യൂട്ട് ആക്കി തുടർന്ന് ട്രാൻസിസ്റ്ററിനെ അതിന്റെ സ്മോൾ സിഗ്നൽ ഇക്യുവാലന്റുമായി മാറ്റിസ്ഥാപിക്കുക എന്നതാണ് ഇതാണ് നമുക്ക് ഉള്ളത് അതിനാൽ കപ്പാസിറ്റർ മൂല്യങ്ങൾ അവ ഷോർട്ട് സർക്യൂട്ടുകൾ പോലെ പ്രവർത്തിക്കുന്നതിന് എന്തായിരിക്കണമെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമുക്കുള്ള സർക്യൂട്ട് ആദ്യം നമുക്ക് C1 ൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇൻപുട്ട് സോഴ്സ് നിർജ്ജീവമാക്കി കപ്പാസിറ്ററിലുടനീളം ദൃശ്യമാകുന്ന റെസിസ്റ്റൻസ് കണ്ടെത്തുക കപ്പാസിറ്റർ റിയാക്റ്റൻസ് ആ റെസിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതാണെന്ന് ഉറപ്പാക്കുക തുടങ്ങിയ പതിവ് പ്രിൻസിപ്പൾ ആണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രക്രിയയിൽ സർക്യൂട്ടിലെ സ്വതന്ത്ര സോഴ്സ്കൾ എല്ലാം ഷോർട്ട് ചെയ്യുന്നു അതിനാൽ ഇൻപുട്ട് സോഴ്സ് Vs ഗ്രൌണ്ടിലേക്ക് ഷോർട്ട് ചെയ്തിരിക്കുന്നു കൂടാതെ നമുക്ക് രണ്ട് കപ്പാസിറ്ററുകളുണ്ട് കൂടാതെ രണ്ട് കപ്പാസിറ്ററുകളുമായും കണക്കുകൂട്ടുന്നതിന്റെ സങ്കീർണതയിലേക്ക് കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നമ്മളൊരു ഉചിതമായ അനുമാനമെടുക്കുന്നു കപ്പാസിറ്റർ C1ന്റെ മൂല്യം കണക്കാക്കുമ്പോൾ മറ്റേതിനെ അത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പെരുമാറുന്ന രീതിയിൽ ശരിയായി തിരഞ്ഞെടുക്കുക അതിനാൽ C1 നായി കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ C2 ഒരു ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഇതാണ് കപ്പാസിറ്ററിന്റെ രണ്ട് ടെർമിനലുകൾ പൂർണ്ണതയ്ക്കായി ഞാൻ അത് ഇത്തരത്തിൽ ബന്ധിപ്പിക്കും C1 ൽ ഉടനീളം ദൃശ്യമാകുന്ന പ്രതിരോധം എന്താണ് ബാക്കിയുള്ള സർക്യൂട്ടിന് ചുറ്റും ഒരു ബോക്സ് വരയ്ക്കാം ഇത് ഗ്രൌണ്ട് ആണ് ഈ പോയിന്റ് ഗ്രൌണ്ട് ചെയ്തിട്ടുണ്ട് അതിനാൽടെർമിനൽ Aയ്ക്കും ടെർമിനൽ B യ്ക്കും ഇടയിൽ C1 ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ B യ്ക്കും ഗ്രൌണ്ടിനും ഇടയിൽ ബോക്സിനുള്ളിൽ ഒരു സർക്യൂട്ട് ഉണ്ട് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ C1 ഇവിടെയുണ്ട് Rs ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു സർക്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലിലും ബന്ധിപ്പിച്ചിരിക്കുന്നു അവിടെ റെസിസ്റ്റൻസ് കാണാം നിങ്ങൾക്ക് ഒരു ലീനിയർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള ഇക്യൂവാലെൻറ് ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അകത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാകും ഈ റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു ടു പോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ചില ടു പോർട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ സാധാരണ ഗ്രൌണ്ട് ആണ് നമുക്ക് Vs ഉം Rs ഉം ഉണ്ട് RL മറുവശത്ത് ഉണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ടെർമിനലിനും ഈ ടെർമിനലിനും ഇടയിലുള്ള ഇൻപുട്ട് പോർട്ടിലിൽ നിങ്ങൾ കാണുന്ന റെസിസ്റ്റൻസ് Rin എന്നറിയപ്പെടുന്നു ഈ ടെർമിനലിനും ഈ ടെർമിനലിനും ഇടയിൽ ഇത് Rout ആണ് അതാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കുന്നത് Vs പൂജ്യമാക്കിയിട്ടാണ് അതിനാൽ ഇതാണ് നിർവചനം ഇൻപുട്ട് പോർട്ട് ആയി എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുണ്ടെങ്കിൽ അതിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് പോർട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുണ്ടെങ്കിൽ അതിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കുമ്പോൾ ലോഡ് കൃത്യമായിരിക്കണം എന്നത് ഓർമിക്കേണ്ടതുണ്ട് കാരണം ഇത് ഇൻപുട്ട് റെസിസ്റ്റൻസിനെ ബാധിക്കും എല്ലാത്തിനുമുപരി ഇത് ഈ സർക്യൂട്ടിന്റെ വലതുവശത്താണ് അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കുമ്പോൾ ഇവിടെ സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം സോഴ്സ് തന്നെ പൂജ്യമായി സജ്ജമാക്കും പക്ഷേ സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം അതിനാൽ ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ ഈ പോയിന്റിനും അതിനും ഇടയിൽ ഉള്ളത് സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് അതിനാൽ ആംപ്ലിഫയറുകളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസുകൾ കണക്കാക്കുന്നതിനുള്ള ഒരു അനുഭവം ഇതു നൽകുന്നു എന്നാൽ C1 നു ഉടനീളം നമുക്ക് Rs Rin ഉണ്ട് Rs ഇതിനകം നമുക്ക് അറിയാം Rin ആണ് നമ്മൾ കണക്കാക്കേണ്ടത് അതിനാൽ സർക്യൂട്ടിന്റെ ആ ഭാഗം വീണ്ടും കാണിക്കാം ഇതാണ് ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് ഇത് ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു ഇതിനു കുറുകേ RL ഉണ്ട് ഇതാണ് gmVGS ഇവിടെ ഈ വോൾട്ടേജ് VGS ആണ് ഈ രണ്ട് ടെർമിനലുകളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കണക്കാക്കേണ്ടതുണ്ട് ബേസിക് എലക്ട്രിക് സർക്യൂട്ടുകളിൽ നിന്ന് നിങ്ങൾക്കറിയാം ഒരു വോൾട്ടേജ് സോഴ്സ് ബന്ധിപ്പിച്ച് അതിലൂടെ ഒഴുകുന്ന കറൻറ് അളക്കുക അനുപാതം എടുക്കുക അല്ലെങ്കിൽ ഒരു കറന്റ് സോഴ്സ് പ്രയോഗിക്കുക വികസിക്കുന്ന വോൾട്ടേജ് കണ്ടെത്തുകയും അനുപാതം എടുക്കുകയും ചെയ്യുക ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒരു വോൾട്ടേജ് സോഴ്സ് VTEST ബന്ധിപ്പിച്ച് കറൻറ് ITEST കണ്ടുപിടിക്കും അതിനാൽ നമ്മൾ അതിൽ ചെയ്യേണ്ടത് കിർചോഫിന്റെ കറൻറ് നിയമം ഇവിടെ എഴുതുക എന്നതാണ് വാസ്തവത്തിൽ ഈ പ്രഭാഷണം ഇവിടെ നിർത്തി ഈ ITEST ഉം ഇൻപുട്ട് റെസിസ്റ്റൻസായ VTEST ITEST എന്ന അനുപാതവും കണ്ടെത്താൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനാൽ ദയവായി ഇത് സ്വയം ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം കാണിക്കും പക്ഷേ തീർച്ചയായും നിങ്ങൾ ഇത് സ്വയം ചെയ്താൽ മികച്ച പഠന അനുഭവമായിരിക്കും അതിനാൽ ഞാൻ കിർചോഫിന്റെ കറൻറ് നിയമ സമവാക്യം ഇവിടെ എഴുതുകയാണെങ്കിൽ ഞാൻ ഇതിനെ Vo എന്ന് വിളിക്കട്ടെ ഇവിടെ വോൾട്ടേജ് VTEST ആണ് എനിക്ക് RG ഉണ്ട് അതാണ് ഔട്ട്പുട്ട് നോഡിലേക്ക് RG വഴി പമ്പ് ചെയ്യുന്ന കറൻറ് ആ കറൻറ് ഇവിടെ നിന്ന് ഒഴുകുന്ന കറൻറിന് തുല്യമായിരിക്കും അത് gmVGS ആണ് VGS ഈ കേസിൽ VTEST നു തുല്യമായിരിക്കും അത് gmVTEST Vo RL ആണ് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഈ ITEST ഈ RG യിലൂടെ ഒഴുകുന്ന കറൻറ് ആണെന്ന് അപ്പോൾ ITEST RG ഈ എക്സ്പ്രെഷനിൽ നിന്ന് വാരിയബിൾ Vo ഒഴിവാക്കിക്കൊണ്ട് VTEST ബൈ ITEST കണ്ടുപിടിക്കാം നിങ്ങൾ സ്വയം ചെയ്ത് ശരിയായി കിട്ടിയെന്നു വിചാരിക്കുന്നു ശരിയായ ഉത്തരം RG RL gmRL1 ആണ് അതിനാൽ ഇത്രയൊക്കെയാനുള്ളത് നിങ്ങൾ RG യ്ക്ക് ഒരു വാല്യൂ തിരഞ്ഞെടുക്കുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ Rin കാണാം നമ്മുടെ കപ്പാസിറ്റർ C1 നെ സംബന്ധിച്ചിടത്തോളം C1 ≫1 0Rs Rin ആണ് ഞാൻ അത് റിയാക്റ്റൻസിനു അനുസരിച്ച് എഴുത്തുകയാണെങ്കിൽ 1 0C1 എന്നത് Rs Rin നേക്കാൾ വളരേ കുറവായിരിക്കും C1 നു അനുസരിച്ച് എഴുത്തുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് അതുകൊണ്ട് C1 1 0Rs Rin നേക്കാൾ കൂടുതലായിരിക്കണം ഇവിടെ Rin RG RL gmRL1ആണ് ഈ RG വളരെ വലുതായിരിക്കുമെങ്കിലും ഈ gmRL ഉം ഈ ഗെയിൻ കാരണം ഒരു വലിയ സംഖ്യയാണ് അതിനാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈ കേസിൽ RG യെക്കാൾ ചെറുതായിരിക്കും അതിനാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് C1 ലെ കൺസ്ട്രെയിന്റ് കണക്കാക്കാം കൂടാതെ C1 നെ കൺസ്ട്രെയിന്റുമായി താരതമ്യപ്പെടുത്തി പത്ത് മടങ്ങ് അല്ലെങ്കിൽ അതിൽ കൂടുതലായി ഉറപ്പിക്കാം